അവസാന പ്രഭാഷണത്തിൽ നമുക്ക് റിയൽ ടൈം സിസ്റ്റംസ്ക്കുറിച്ച് വളരെ അടിസ്ഥാനപരമായ ഒരു ആമുഖം ഉണ്ടായിരുന്നു എന്താണ് റിയൽ ടൈം എന്താണ് ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് ഒരു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കൂടാതെ ഒരു പ്രധാന ആവശ്യകതകളിൽ ഒന്ന് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് അവരുടെ ഡെഡ്ലൈനുകൾ നിറവേറ്റുന്നതിന് ടാസ്ക്കുകളെ സഹായിക്കണം എന്നതാണ് എംബഡഡ് ആപ്ലിക്കേഷനുകൾ വളരെയധികം മാറുകയാണ് ഇത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു പ്രധാന ആപ്ലിക്കേഷൻ ഏരിയയാണ് അപ്പോൾ ഒരു റിയൽ ടൈം സിസ്റ്റത്തിന് ഉണ്ടാകാനിടയുള്ള വ്യത്യസ്ത തരം റിയൽ ടൈം സംവിധാനങ്ങൾ അതായത് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം അതുപോലെതന്നെ ഫേർമ് റിയൽ ടൈം സിസ്റ്റം അവയുടെ ഉദാഹരണങ്ങൾ വ്യത്യസ്ത തരം ടാസ്ക്കുകൾ എന്നിവ വരുന്നു ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ടാസ്ക്കുകൾ വിശാലമായി പീരിയോഡിക് അപീരിയോഡിക് സ്പോറാഡിക് എന്നിങ്ങനെ മൂന്ന് തരം തിരിക്കാം ഒരു ടൈമർ അനുസരിച്ച് ആവർത്തിക്കുന്ന ഒരു ജോലിയാണ് പീരിയോഡിക് ടാസ്ക് ഉദാഹരണത്തിന് ഒരു കെമിക്കൽ പ്ലാന്റിൽ പ്ലാന്റിടെ പാരാമീറ്ററുകൾ ഇടയ്ക്കിടെ മനസ്സിലാക്കുകയും പിന്നീട് ഒരു തിരുത്തൽ നടപടി സ്വീകരിക്കണോ എന്ന് കമ്പ്യൂട്ടർ തീരുമാനിക്കുകയും താപനിലയോ രാസ ഏകാഗ്രതയോ മാറ്റുന്നത് പോലുള്ള ഒരു തിരുത്തൽ നടപടി ഉണ്ടെങ്കിൽ അത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യുന്നു എല്ലാ റിയൽ ടൈം ആപ്ലിക്കേഷനുകൾക്കും പീരിയോഡിക് ടാസ്ക്കുകൾ ഭൂരിപക്ഷത്തിലാണ് അതായത് ധാരാളം ടാസ്ക്കുകൾ പീരിയോഡിക് ടാസ്ക്കുകളാണ് പീരിയോഡിക് ടാസ്ക്കുകൾ ക്രമരഹിതമായി ആവർത്തിക്കുകയും സോഫ്റ്റ് റിയൽ ടൈം ജോലികളാണ് ഉദാഹരണത്തിന് താപനില വർദ്ധിപ്പിക്കുന്നതിനോ രാസപ്രവർത്തന നിരക്ക് കുറയ്ക്കുന്നതിനോ ഒരു ഓപ്പറേറ്റർ ഒരു കമാൻഡ് നൽകുന്നു ഓപ്പറേറ്റർ എപ്പോൾ ഒരു കമാൻഡ് നൽകുമെന്ന് അറിയില്ല അത് ക്രമരഹിതമായിരിക്കാം കൂടാതെ ഈ കമാൻഡിനോടുള്ള പ്രതികരണം അടിസ്ഥാനപരമായിസോഫ്റ്റ് റിയൽ ടൈം ജോലികളാണ് ഉപയോക്താവ് കമാൻഡ് നൽകിയുകഴിഞ്ഞാൽ അതിന് കുറച്ച് നിമിഷങ്ങളെടുക്കും കൂടാതെ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ അന്തിമകാലാവധി ഇല്ല മറുവശത്ത് സ്പോറാഡിക് ജോലികൾ വീണ്ടും ക്രമരഹിതമായിരിക്കാം പക്ഷേ ഇവയ്ക്കൊപ്പം കഠിനമായ സമയപരിധികളുണ്ട് ഉദാഹരണത്തിന് ഒരു കെമിക്കൽ പ്ലാന്റിലെ ഒരു വ്യവസായത്തിൽ തീയുടെ അവസ്ഥ സംഭവിക്കുന്നു സെൻസറുകൾ അവസ്ഥ പരിശോധിക്കുകയും അവ നിരവധി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഒരു അലാറം മുഴക്കുന്നു പ്രതികരണം നിർത്തുന്നു വാട്ടർ ഷവർ ആരംഭിക്കുന്നു അത്തരമൊരു അലാറം സംഭവിക്കുമ്പോൾ ഒരു അഗ്നി അവസ്ഥ പ്രവചനാതീതവും ക്രമരഹിതവുമാണ് എന്നാൽ പ്ലാന്റിൽ അത്തരമൊരു അടിയന്തിര സാഹചര്യം അടങ്ങിയിരിക്കുന്നതിനായി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടപടി ആരംഭിക്കണം ഇവിടെ ഏത് റിയൽ ടൈം ആപ്ലിക്കേഷനിലും ഭൂരിഭാഗം ജോലികളും പീരിയോഡിക്മാണ് ചില ജോലികൾ അപീരിയോഡിക് ആയിരിക്കാം അടിസ്ഥാനപരമായി ഇവ സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക്കുകളാണ് ഇവ ക്രമരഹിതമായി സംഭവിക്കുന്നു മറ്റൊരു വിഭാഗം സ്പോറാഡിക് ജോലികളാണ് ഇവ റിയൽ ടൈം ജോലികളാണ് പക്ഷേ അവ ക്രമരഹിതമായി സംഭവിക്കുന്നു ഇവ അപൂർവമായ അപീരിയോഡിക് സ്പോറാഡിക് ടാസ്ക് നമ്പറുകളാണ് പീരിയോഡിക് ടാസ്ക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ കുറവാണ് എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം ഒരു ടാസ്കിന്റെ സമയ പരിമിതിയാണ് അത് ചില ഇവൻസ്മായി ബന്ധപ്പെട്ട് നിർവചിക്കപ്പെടുന്നു ഒരു ഇവന്റ് സംഭവിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ സമയം എണ്ണാൻ തുടങ്ങും ഒരു നിശ്ചിത സമയത്തിന് മുമ്പായി ഫലം ലഭിക്കണം ഇവന്റ് സിസ്റ്റം അല്ലെങ്കിൽ പരിസ്ഥിതി നിർമ്മിച്ചതാകാം മുന്നോട്ട് പോകുമ്പോൾ രണ്ടിന്റെയും ഉദാഹരണങ്ങൾ ഞങ്ങൾ കാണും ഒരു സാധാരണ ആപ്ലിക്കേഷനിൽ ധാരാളം റിയൽ ടൈം ടാസ്ക്കുകൾ ഉണ്ട് ഇവന്റ് കാരണം ഇവ ജനറേറ്റുചെയ്യുന്നു ഈ ഇവന്റുകളിൽ ചിലത് ആന്തരികമോ ബാഹ്യമോ ആയ സംഭവങ്ങളാകാം ഉദാഹരണത്തിന് താപനില സെൻസർ ഉയർന്ന താപനില അനുഭവപ്പെടുമ്പോൾ ഒരു ടാസ്ക് സൃഷ്ടിക്കപ്പെടാം തുടർന്ന് താപനില കുറയ്ക്കുക ഒരുപക്ഷേ വാട്ടർ ഷവർ ആരംഭിക്കുക തുടങ്ങിയവയാണ് ചുമതല ഒരു പരിധിവരെ താപനില വർദ്ധിക്കുന്നതിന്റെ ഒരു ബാഹ്യ സംഭവമാണ് ഈ ഇവന്റ് സൃഷ്ടിക്കുന്നത് ആന്തരിക ഇവന്റ് മെമ്മറിക്ക് പുറത്തുള്ളതാകാം അല്ലെങ്കിൽ ചില ജോലികൾ വളരെയധികം സമയമെടുക്കുന്നു അവ ആന്തരിക സംഭവങ്ങളാണ് ഒരു ഇവന്റ് കാരണം ഒരു ടാസ്ക് ജനറേറ്റുചെയ്യുമ്പോഴെല്ലാം ആ ടാസ്ക് റിലീസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നു അല്ലെങ്കിൽ ടാസ്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത് റിയൽ ടൈം ടാസ്ക് ഷെഡ്യൂളിംഗ് ഏറ്റവും പ്രാഥമികമായ വിവരണം കമ്പ്യൂട്ടർ വിവിധ ജോലികൾ നിർവ്വഹിക്കേണ്ട ക്രമത്തിൽ ടാസ്ക് ഷെഡ്യൂളർ തീരുമാനിക്കുന്നു ഏതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതും മറ്റും അടുത്തതായി ഏത് ടാസ്ക് നിർവഹിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു ടാസ്ക് ഷെഡ്യൂളറാണ് ടാസ്ക് ഷെഡ്യൂളർ എല്ലാ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെയും ഒരു പ്രധാന ഭാഗമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവരുടെ സമയപരിധി പാലിക്കാൻ അപ്ലിക്കേഷനുകളെ സഹായിക്കുന്ന പ്രാഥമിക മാർഗമാണ് അവ വ്യത്യസ്ത തരം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ആദ്യം പരാമർശിക്കുന്നത് ഷെഡ്യൂളറിന്റെ തരം എന്താണ് എന്നതാണ് ഓരോ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഷെഡ്യൂളർ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ചില അടിസ്ഥാന പദങ്ങൾ ഇനിപ്പറയുന്നവയാണ്ജോബ എന്നത് ഒരു ജോലിയുടെ യൂണിറ്റാണ് ഉദാഹരണത്തിന് ഒരു നിശ്ചിത അവസ്ഥയിലെത്തിയോ അല്ലെങ്കിൽ ഒരു ഫയൽ വായിക്കുന്നതിനോ ചില ഡാറ്റ സംഭരിക്കുന്നതിനോ മറ്റൊരു ജോലിയുമായി ആശയവിനിമയം നടത്തുന്നതിനോ ഒരു നിശ്ചിത വ്യവസ്ഥ തൃപ്തികരമാണോ എന്ന് പരിശോധിക്കുകഇവ ജോബകളുടെ ഉദാഹരണങ്ങളാണ് ഇവ ടാസ്ക് ഇൻസ്റ്റൻസ്ളാണ് അതേസമയം സമാനമായ ജോലികളുടെ ഒരു ശ്രേണിയാണ് ടാസ്ക് ഉദാഹരണത്തിന് കെമിക്കൽ പ്ലാന്റിന്റെ താപനില ചില പരിധി കവിയുന്നത് കൈകാര്യം ചെയ്യുക എന്നതാണ് ഒരു ടാസ്ക് ഓരോ തവണയും താപനില സെൻസർ അത് അളക്കുമ്പോൾ താപനില മൂല്യം പരിധിക്ക് മുകളിലാണോയെന്ന് പരിശോധിക്കുന്നതിനായി ഒരു ടാസ്ക് ജനറേറ്റുചെയ്യുന്നു തുടർന്ന് അത് പരിധിക്ക് മുകളിലാണെങ്കിൽ ചില തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുക ഓരോ കുറച്ച് മില്ലിസെക്കൻഡിലും അല്ലെങ്കിൽ താപനില സെൻസർ അതിന്റെ ഇൻപുട്ട് ഒരു ഇന്ററപ്റ്റിലൂടെ നൽകുമ്പോൾ ടാസ്ക് വീണ്ടും ജനറേറ്റുചെയ്യുന്നു ടാസ്ക് ജനറേറ്റുചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്നു ടാസ്ക് റിലീസ് ചെയ്ത സമയം ടാസ്ക് റിലീസ് സമയവും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കുറച്ച് സമയത്തിന് ശേഷം ടാസ്ക് നിർവ്വഹിക്കാൻ ആരംഭിക്കുന്നു ഇതാണ് ആരംഭം ഇതാണ് റിലീസ് സമയം ഇത് കുറച്ച് സമയത്തിന് ശേഷം പൂർത്തിയാകാം തുടർന്ന് ഒരു ഡെഡ് ലൈന് യഥാർത്ഥ റിയൽ ടൈം ടാസ്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡെഡ് ലൈന് അളക്കുകയും സമയ പൂജ്യവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുചെയ്യുകയും ചെയ്താൽ ഇത് ഒരു ആബ്സലൂറ്റ് ഡെഡ് ലൈന് ആണെന്ന് പറയുക അതേസമയം ഡെഡ് ലൈന് കണക്കാക്കുകയോ റിലീസ് സമയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ അതിനെ റെലറ്റിവ് ഡെഡ് ലൈന് എന്ന് വിളിക്കുന്നു അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആരംഭ റിലീസ് ടാസ്ക് റിലീസ് മുതൽ ആബ്സലൂറ്റ് ഡെഡ് ലൈന് വരെ റെലറ്റിവ് ഡെഡ് ലൈന് ആരംഭിക്കുന്നു ഒരു സ്വീകാര്യമായ പദാവലി ആയ ഈ മേഖലയിൽ ഒരു ജോലിയുടെ ഇൻസ്റ്റൻസ് ജോബ് എന്ന് വിളിക്കുന്നു ടാസ്ക് സാധാരണഗതിയിൽ നിരവധി തവണ ആവർത്തിക്കുന്നു പീരിയോഡിക് ടാസ്ക്കുകൾ സംഭവിക്കുന്നു അവ ചില ക്ലോക്ക് ഇന്ററപ്റ്റിനെ അടിസ്ഥാനമാക്കി പീരിയോഡിക് ആവർത്തിക്കുന്നു അതേസമയം ഒരു പീരിയോഡിക്വും സ്പോറാഡിക് ടാസ്ക് ക്രമരഹിതമായി സംഭവിക്കുന്നു ഓരോ തവണയും ഒരു ടാസ്ക് ആവർത്തിക്കുമ്പോൾ ടാസ്കിന്റെ ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ജോബ ജനറേറ്റുചെയ്തു അല്ലെങ്കിൽ റിലീസ് ചെയ്തു ithസമയം ഒരു ടാസ്ക് t ആവർത്തിക്കുമ്പോൾ ജോബ അല്ലെങ്കിൽ ടാസ്ക് ഇൻസ്റ്റൻസ് Ti എത്തിയെന്ന് പറയപ്പെടുന്നു സമയ പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഡെഡ് ലൈന് ആബ്സലൂറ്റ് സമയം നൽകാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്ആബ്സലൂറ്റ് ഡെഡ് ലൈന് എന്ന് ഞങ്ങൾ ഇതിനകം വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും റെലറ്റിവ് ഡെഡ് ലൈന് ടാസ്ക് റിലീസിൽ നിന്ന് കണക്കാക്കുന്നു ഇത് ഇതിനകം നേരത്തെ കാണിച്ചിരിക്കുന്നു കാരണം ഇത് റെലറ്റിവ് ഡെഡ് ലൈന് ആബ്സലൂറ്റ് ഡെഡ് ലൈന് പ്രധാനപ്പെട്ട പദാവലിയാണ് ടാസ്ക് റിലീസിൽ നിന്ന് ഡെഡ് ലൈന് വരെ ഇത് വീണ്ടും കാണിക്കുന്നത് റെലറ്റിവ് സമയമാണ് അതേസമയം പൂജ്യം മുതൽ ഞങ്ങൾ അളക്കുന്ന സമയപരിധി വരെ ഞങ്ങൾ അത് ആബ്സലൂറ്റ് സമയപരിധി പ്രകാരം സൂചിപ്പിക്കുന്നു ഇപ്പോൾ റെസ്പോൺസ് സമയമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന പദത്തെ നിർവചിക്കുക ടാസ്ക് റിലീസ് മുതൽ ടാസ്ക് പൂർത്തിയാക്കുന്ന സമയം വരെയുള്ള സമയമാണ് റെസ്പോൺസ് സമയം T സമയത്ത് ടാസ്ക് പുറത്തിറങ്ങുമ്പോൾ ടാസ്ക് എക്സിക്യൂഷൻ കുറച്ച് സമയത്തിന് ശേഷം ആരംഭിക്കുകയും അത് ഒരു നിശ്ചിത സമയത്ത് നിർവ്വഹിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നു ടാസ്ക് റിലീസ് ചെയ്യുന്നതുമുതൽ ടാസ്ക് പൂർത്തിയാക്കുന്ന സമയം വരെയുള്ള സമയത്തെ ഞങ്ങൾ റെസ്പോൺസ് സമയമായി വിളിക്കുന്നു അടിസ്ഥാനപരമായി സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക്കൈകാര്യം ചെയ്യുന്ന പരമ്പരാഗത ഓവർറേറ്റിംഗ് സിസ്റ്റത്തിൽ റെസ്പോൺസ് സമയം കുറയ്ക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആപ്ലിക്കേഷനിൽ പോലും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ടാസ്ക് ഒരു സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക് ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ടാസ്ക്കിന്റെ റെസ്പോൺസ് സമയം കുറയ്ക്കേണ്ടതുണ്ട് അതേസമയം റിയൽ ടൈംവും സ്പോറാഡിക്മായ ടാസ്ക്കിനായി റെസ്പോൺസ് സമയം കുറയ്ക്കുക എന്നത് ലക്ഷ്യമല്ല ഹാർഡ് റിയൽ ടൈം സ്പോറാഡിക് ടാസ്ക്കളുടെ ഡെഡ് ലൈന് പാലിക്കുക എന്നതാണ് ലക്ഷ്യം റിയൽ ടൈം ഹാർഡ് റിയൽ ടൈം ടാസ്ക്കുകൾക്ക് ഡെഡ് ലൈന് ടാസ്ക് പൂർത്തിയാകുന്നിടത്തോളം ഡെഡ് ലൈന്യേക്കാൾ മുമ്പുതന്നെ ഇത് പൂർത്തിയാക്കുന്നതിൽ പ്രത്യേക നേട്ടമൊന്നുമില്ല ഒരു ടാസ്ക്കിന്റെ ഘട്ടം മറ്റൊരു പ്രധാന പദമാണ് കാരണം ടാസ്ക് ഷെഡ്യൂളറുകളിലെ ഇതും പ്രധാനപ്പെട്ട പദാവലിയാണ് ഒരു ടാസ്ക്കിന്റെ ഈ ഘട്ടത്തെ ഞങ്ങൾ പലപ്പോഴും പരാമർശിക്കും ഏതൊരു റിയൽ ടൈം ആപ്ലിക്കേഷനിലും ധാരാളം ടാസ്ക്കുകളുണ്ട് അവയിൽ ഭൂരിഭാഗവും പീരിയോഡിക് ടാസ്ക്കുകളാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പീരിയോഡിക് ടാസ്ക്കുകൾ ശരിക്കും പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കുന്നില്ല പല പീരിയോഡിക് ജോലികളും ആരംഭിക്കുന്നില്ല അവ പിന്നീട് ചുമതല ആരംഭിക്കുന്നു നിശ്ചിത സമയത്തിന്റെ കാലഹരണപ്പെടൽ ഇവന്റുകൾ ഒരു നിശ്ചിത സമയത്ത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്ന് അവ ആരംഭിക്കുന്നു പക്ഷേ തുടക്കത്തിൽ കുറച്ച് സമയത്തേക്ക് ടാസ്ക്കുകൾ നിലവിലില്ല ഇതിനെ ചുമതലയുടെ ഘട്ടം എന്ന് വിളിക്കുന്നു ഈ കാര്യം വ്യക്തമാക്കുന്നതിന് ഒരു ഉദാഹരണം നൽകുന്നതിന് ഞങ്ങൾ ഒരു റോക്കറ്റിന്റെ ഉദാഹരണം എടുക്കും റോക്കറ്റ് കത്തിച്ചുവിട്ടാല് തുടക്കത്തിൽ അത് നിശ്ചിത സമയത്തേക്ക് സ്വന്തം വേഗതയിൽ പോകുന്നു തുടർന്ന് ഞങ്ങൾക്ക് ഒരു ടാസ്ക് തിരുത്തൽ നടക്കുന്നില്ല കുറച്ച് സമയത്തിനുശേഷം ട്രാക്ടറി തിരുത്തൽ ജോലികൾ ആരംഭിക്കുന്ന ടാസ്ക് റോക്കറ്റ് വിക്ഷേപിച്ച 2000 മില്ലിസെക്കൻഡിനുശേഷം ട്രാക്ക് തിരുത്തൽ ജോലികൾ ആരംഭിക്കുന്നുവെന്ന് നമുക്ക് പറയാം ഈ ടാസ്കിന്റെ ഘട്ടം ടാസ്ക് തിരുത്തൽ ചുമതല 2000 മില്ലിസെക്കൻഡാണ് ടാസ്ക്കുകൾ ആരംഭിച്ചുകഴിഞ്ഞാൽ ടാസ്ക്കിന്റെ ആദ്യ ഇൻസ്റ്റൻസ് 2000 മില്ലിസെക്കൻഡിനുശേഷം ആരംഭിക്കുന്നു തുടർന്ന് ഇത് ഓരോ 50 മില്ലിസെക്കൻഡിലും ഇടയ്ക്കിടെ ആവർത്തിക്കുന്നു നിർവ്വഹണ സമയം 8 മില്ലിസെക്കൻഡും സമയപരിധി 50 മില്ലിസെക്കൻഡും ആകാം ഈ ട്രാക്ക് തിരുത്തൽ ജോലിയുടെ വിവരണം റോക്കറ്റ് കത്തിച്ചുവിട്ടശേഷം ഘട്ടം 2000 മില്ലിസെക്കൻഡാണ് 2000 മില്ലിസെക്കൻഡിൽ ഒരു ട്രാക്ക് തിരുത്തലും നടക്കുന്നില്ല 2000 മില്ലിസെക്കൻഡിനുശേഷം ആദ്യത്തെ ട്രാക്ക് തിരുത്തൽ ചുമതല ആരംഭിക്കുകയും പിന്നീട് 50 മില്ലിസെക്കൻഡും ഓരോ ട്രാക്കും ആവർത്തിക്കുകയും ചെയ്യുന്നു തിരുത്തൽ ചുമതലയ്ക്ക് 8 മില്ലിസെക്കൻഡ് എക്സിക്യൂഷൻ സമയം ആവശ്യമാണ് ഓരോ ടാസ്ക്ടെയും ഡെഡ് ലൈന് അത് റിലീസ്യാൽ 50 മില്ലിസെക്കൻഡാണ് വാലഡ് ഷെഡ്യൂളും ഫീസബൽ ഷെഡ്യൂളും മറ്റൊരു പ്രധാന പദമാണ് ഒരു പ്രോസസ്സറിലേക്ക് ടാസ്ക് നിയോഗിച്ചിട്ടുള്ള ഒന്നാണ് വാലഡ് ഒരു ഷെഡ്യൂൾ അത് റിലീസ്യതിന് ശേഷം ടാസ്ക് ഷെഡ്യൂൾ ചെയ്യുന്നില്ല അത് റിലീസ് ചെയ്യുകയോ ജനറേറ്റുചെയ്യുകയോ ചെയ്തതിനുശേഷം മാത്രമേ ഷെഡ്യൂളർ ഷെഡ്യൂൾ ചെയ്യുകയും അത് മറ്റെന്തെങ്കിലും ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന്റെ പരിമിതികൾ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ഡെഡ് ലൈന് പാലിക്കുമോ എന്ന് അത് പറയുന്നില്ല ഈ വശങ്ങൾക്ക് പുറമേ ഡെഡ് ലൈന് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ഫീസബൽ ഷെഡ്യൂളർ എന്ന് വിളിക്കുന്നു വാലഡ് ഒരു ഷെഡ്യൂളിനായി ടാസ്ക് ഡെഡ് ലൈന് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഷെഡ്യൂളർ തയ്യാറാക്കിയ ഷെഡ്യൂളിനെ ഫീസബൽ ഷെഡ്യൂളറായി ഞങ്ങൾ വിളിക്കുന്നു പ്രാഫിഷൻറ്റ് ഷെഡ്യൂളർ എന്ന നിലയിൽ ഞങ്ങൾക്ക് മറ്റൊരു പദം ഉണ്ട് ഒരു ആപ്ലിക്കേഷനായി ഒരു ടാസ്ക് സെറ്റ് നൽകിയാൽ ചില ഷെഡ്യൂളർമാർക്ക് ടാസ്ക്കുകൾ ഡെഡ് ലൈന് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ കാണും അതേസമയം മറ്റൊരു ഷെഡ്യൂളർ ഉണ്ടായിരിക്കാം അത് ബന്ധപ്പെട്ട ഡെഡ് ലൈന് പാലിക്കാൻ ഈ ടാസ്ക്കുകൾ സജ്ജമാക്കാൻ ഞങ്ങളെ അനുവദിക്കുകയും രണ്ടാമത്തെ ഷെഡ്യൂളർ കൂടുതൽ പ്രാവീണ്യം നേടുകയും ചെയ്യും ഒരു ടാസ്ക് സെറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ S2 ന് കഴിയുമ്പോഴെല്ലാം S1 ന്ഒരു ഷെഡ്യൂളർ S1 S2 നെക്കാൾ പ്രാഫിഷൻറ്റ്ന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ S1 ന് കഴിയും പക്ഷേ തിരിച്ചും ഏതൊരു ടാസ്ക് സെറ്റിനും ഒരു ഷെഡ്യൂളർക്ക് ഫീസബൽ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമെങ്കിൽ മറ്റ് ഷെഡ്യൂളർക്ക് ഫീസബൽ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഷെഡ്യൂളർ ഒരുപോലെ പ്രാഫിഷൻറ്റ് മറ്റേതൊരു ഷെഡ്യൂളർക്കും ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്ന ഒരു ടാസ്ക് സെറ്റ് സാധ്യമായി ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഒപ്റ്റിമൽ ഷെഡ്യൂളർ ഷെഡ്യൂളിംഗ് പോയിന്റും മറ്റൊരു പ്രധാന പദമാണ് ഒരു ഷെഡ്യൂളർ ഒരു സോഫ്റ്റ്വെയർ ഘടകമാണെന്ന് നമുക്ക് ചിന്തിക്കാനാകും അത് ചില സമയങ്ങളിൽ സജീവമാവുകയും അടുത്തത് ഏത് ടാസ്ക് പ്രവർത്തിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു സമയത്തിന്റെ ചില ഘട്ടങ്ങളിൽ ഷെഡ്യൂളർ ടാസ്ക് സജീവമാവുകയും അടുത്തത് ഏത് ടാസ്ക് പ്രവർത്തിപ്പിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന ഈ പോയിന്റുകളെ ഷെഡ്യൂളിംഗ് പോയിന്റുകൾ എന്ന് വിളിക്കുന്നു തീർച്ചയായും ഒരു ക്ലോക്ക് നയിക്കുന്ന ഷെഡ്യൂളറിൽ ഒരു പീരിയോഡിക് ടൈമറിൽ നിന്നുള്ള ഇന്ററപ്റ്റ് ഷെഡ്യൂളിംഗ് പോയിന്റുകൾ നിർവചിക്കപ്പെടുന്നു ടൈംലൈനിൽ അവ ഒരേപോലെ സ്ഥാപിക്കും അവ ക്ലോക്ക് ഇന്ററപ്റ്റുകളിലൂടെ സൃഷ്ടിക്കപ്പെടും ക്ലോക്ക് ഇന്ററപ്റ്റ് സംഭവിക്കുമ്പോൾ ഷെഡ്യൂളർ സജീവമാവുകയും ഏത് ടാസ്ക് പ്രവർത്തിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇവന്റ് നയിക്കുന്ന ഷെഡ്യൂളറിലെ മറുവശത്ത് ഒരു ക്ലോക്ക് ഇന്ററപ്റ്റിനെ അടിസ്ഥാനമാക്കി ഷെഡ്യൂളർ സജീവമാകില്ല പക്ഷേ ഇത് ചില ഇവന്റുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവന്റ് ഡ്രൈവു ചെയ്തതായി പേര് പറയുന്നതുപോലെ ഈ ഷെഡ്യൂളറുകൾ സജീവമാകാൻ കാരണമാകുന്ന ഇവന്റുകൾ ക്ലോക്ക് സൃഷ്ടിച്ചതല്ല മറിച്ച് ടാസ്ക്കുകളുടെ പൂർത്തീകരണവും ജനറേഷനും വഴിയാണ് ചില ടാസ്ക്കുകൾ ജനറേറ്റു ചെയ്യുകയാണെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുന്നയാൾ ഈ പുതിയ ടാസ്ക് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോയെന്ന് പരിശോധിക്കുന്നു കൂടാതെ ഒരു ടാസ്ക് പൂർത്തിയാകുമ്പോഴെല്ലാം ഷെഡ്യൂളർ സജീവമാവുകയും ഏത് ടാസ്ക് ഷെഡ്യൂൾ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ക്ലോക്ക് ഡ്രൈവു ചെയ്യുന്ന ഷെഡ്യൂളറുകൾ ലളിതമായ ഷെഡ്യൂളറുകളാണ് ഇവന്റ് ഡ്രൈവുചെയ്യുന്ന ഷെഡ്യൂളറുകൾ കൂടുതൽ സങ്കീർണ്ണവും അത്യാധുനികവുമായ ഷെഡ്യൂളറുകളാണ് മാത്രമല്ല അവർക്ക് ക്ലോക്ക് ഡ്രൈവുചെയ്യുന്ന ഷെഡ്യൂളറിനേക്കാൾ ഗുണങ്ങളുണ്ട് എന്നാൽ ക്ലോക്ക് ഡ്രൈവുചെയ്യുന്ന ഷെഡ്യൂളറുകളാണ് ലളിതമായ ചിപ്പ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നത് അതേസമയം അത്യാധുനിക റിയൽ ടൈം ആപ്ലിക്കേഷനുകൾ ഇവന്റ് ഡ്രൈവുചെയ്ത ഷെഡ്യൂളറുകൾ ഉപയോഗിക്കുന്നു ലഭ്യമായ വ്യത്യസ്ത ഷെഡ്യൂളറുകൾ റിയൽ ടൈം സിസ്റ്റങ്ങൾ ടാസ്ക് സ്വഭാവസവിശേഷതകൾ ടാസ്ക്കുകളുടെ പദാവലി ടാസ്ക് തരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് അടിസ്ഥാന അറിവുണ്ട് യൂണിപ്രൊസസ്സറുകളിൽ ഷെഡ്യൂൾ ചെയ്യുന്ന ആദ്യ ടാസ്ക്കുകൾ നമുക്ക് നോക്കാം 1970കളിലു 80 കളിലുമുള്ള ഗവേഷണത്തിന്റെ കേന്ദ്രബിന്ദു ടാസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആയിരുന്നു ആ ദിവസങ്ങളിൽ ധാരാളം ഫലങ്ങൾ ലഭ്യമായി മാത്രമല്ല അവയിൽ പല ഫലങ്ങളും ഇപ്പോൾ വരെ പരാമർശിക്കപ്പെടുന്നു ആ ദിവസങ്ങളിൽ നടത്തിയ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് പ്രധാനമായും രണ്ട് തരം ഷെഡ്യൂളറുകളുണ്ട് ഒന്ന് ക്ലോക്ക് ഡ്രൈവ് ഇവന്റ് ഡ്രൈവ് എന്ന് വിളിക്കുന്നു മുമ്പത്തെ സ്ലൈഡിൽ ഞങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുവെങ്കിൽ ഷെഡ്യൂളിംഗ് പോയിന്റുകൾ ഒരു ക്ലോക്ക് ഇന്ററപ്റ്റ് സൃഷ്ടിച്ചാൽ ഇവയെ ക്ലോക്ക് ഡ്രൈവുള്ള ഷെഡ്യൂളർ എന്ന് വിളിക്കുന്നു ഇവിടെ ഒരു ടൈമറിനെ അടിസ്ഥാനമാക്കി ഷെഡ്യൂളർ പീരിയോഡികയി സജീവമാവുകയും അത് ക്ലോക്ക് ഡ്രൈവുചെയ്യുന്ന ഷെഡ്യൂളറാണ് ഇവ ലളിതമായ ഷെഡ്യൂളറുകളാണ് ഒരു ഇവന്റ് ഡ്രൈവുചെയ്യുന്ന ഷെഡ്യൂളറിൽ ഷെഡ്യൂളിംഗ് പോയിന്റുകൾ ചില ഇവന്റുകളും ആ ഇവന്റുകൾ എന്തൊക്കെയുമാണ് നിർവചിച്ചിരിക്കുന്നത് ടാസ്ക് ആരംഭിക്കുന്ന ഇവന്റ് അല്ലെങ്കിൽ റിലീസ് ഇവന്റ് പൂർത്തീകരണ ഇവന്റുകൾ എന്നിവ രണ്ട് പ്രധാന ഇവന്റുകളാണെന്ന് ഞങ്ങൾ പറഞ്ഞു വിവിധ തരം ഷെഡ്യൂളറുകൾ ചുവടെ ചേർക്കുന്നു അതിലൊന്നാണ് എൻഡ്ലസ് ലൂപ്പ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത ലളിതമായ പ്രോഗ്രാം മാത്രമാണ് ഇത് ടാസ്ക്കുകളൊന്നുമില്ല അത് ചില അവസ്ഥകൾ ഒരു ലൂപ്പിൽ പരിശോധിച്ച് പ്രവർത്തിക്കുന്നു മാത്രമല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റമില്ലാതെ ആരംഭിക്കുന്നത് ഞങ്ങൾക്ക് ലളിതമായ സൈക്ലിക് എക്സിക്യൂട്ടറുകൾ ഉണ്ട് ടാസ്ക്കുകൾ നിർവ്വഹിക്കുന്ന ഒരൊറ്റ ഫ്രീക്വൻസി ഉണ്ട് ടാസ്ക്കുകളുടെ കാലയളവ് സമാനമാണ് ഒരു ടൈമർ ഇന്ററപ്റ്റ് സംഭവിച്ചാൽ ടാസ്ക്കുകൾ നിർവ്വഹണത്തിനായി ഏറ്റെടുക്കുകയും സിസ്റ്റം കാത്തിരിക്കുകയും ചെയ്യുന്നു ഒരു മൾട്ടി റേറ്റ് സൈക്ലിക് എക്സിക്യൂട്ടീവിൽ ഒന്നിലധികം ഫ്രീക്വൻസികളുണ്ട് വ്യത്യസ്ത കാലയളവുകളിൽ വ്യത്യസ്ത ടാസ്ക് ഉണ്ടാകുന്നു മൾട്ടി റേറ്റ് സൈക്ലിക് എക്സിക്യൂട്ടീവും ഈ വ്യത്യസ്ത ടാസ്ക് കൈകാര്യം ചെയ്യുന്നതും അവയുടെ ഡെഡ് ലൈന് പാലിക്കാൻ സഹായിക്കുന്നതും ചർച്ചചെയ്യും ഇവ ലളിതമായ സൈക്ലിക് എക്സിക്യൂട്ടീവ് മൾട്ടി റേറ്റ് സൈക്ലിക് എക്സിക്യൂട്ടീവ് എന്നിവയാണ് ചെയ്യുന്നത് ഇവ ലളിതമായ ആപ്ലിക്കേഷനുകളിലാണ് ഉപയോഗിക്കുന്നത് അതേസമയം അത്യാധുനികമായവ മുൻഗണന അടിസ്ഥാനമാക്കിയുള്ള പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളറുകളാണ് ഇവന്റ് ഡ്രൈവുചെയ്യുന്ന ഷെഡ്യൂളറുകൾ ഞങ്ങളുടെ ചർച്ചയുടെ നല്ല ഭാഗം മുൻഗണന അടിസ്ഥാനമാക്കിയുള്ള പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളറുകളിലാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ അടുത്ത പ്രഭാഷണം ഞങ്ങൾ സൈക്ലിക് ഷെഡ്യൂളറുകളെക്കുറിച്ച് ചർച്ച ചെയ്യും